രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം അപ്പേർച്ചർ ആന്റിന ഫൂറിയർ ട്രാൻസ്ഫോo ഉപയോഗിച്ച് വിശകലന രീതി ഞങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ അവസാന പ്രഭാഷണത്തിൻറെ അവസാന ഭാഗത്ത് ഈ പരിഹാരത്തിൽ നിന്ന് എഫ് കണ്ടെത്തുന്നതുവരെ ഞങ്ങൾ പറഞ്ഞു അതിനാൽ പൊതുവെ ഒരു ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ നിന്ന് എനിക്ക് ഒരു പരിഹാരം ലഭിക്കുകയാണെങ്കിൽ സ്ഥിരാങ്കത്തെ എങ്ങനെ പരിഹരിക്കും ഞങ്ങൾ ബൌൻഡറി കൻഡിഷൻ നൽകി ഇവിടെ എന്തായിരിക്കും ബൌൻഡറി കൻഡിഷൻ ബൌൻഡറി കൻഡിഷൻ ഇത് ശരിക്കും ഒരു പരിഹാരമാണെങ്കിൽ നമുക്ക് പോകാം z 0 തുല്യമാണ് തുടർന്ന് ഈ പരിഹാരം എനിക്ക് അപ്പർച്ചർ ഫീൽഡ് നൽകും അനുമാനിച്ചു അതിനാൽ ഇവിടെ പരിഹാരം കാണുന്നതിന് ഞങ്ങൾ ഇപ്പോൾ ചെയ്യും അതിനാൽ നമുക്ക് അത് പറയാൻ കഴിയുന്നത് നമ്മൾ z0 ലേക്ക് പോകും അവിടെ നമുക്കറിയാം അപ്പേർച്ചറിലെ ടാൻജൻഷ്യൽ ഫീൽഡ് ഇതുപോലെയാകണം അതിനാൽ എനിക്ക് ഈ പരിഹാരമുണ്ട് Z ഇവിടെ 0 ന് തുല്യമാണെന്ന് ഞാൻ പറയട്ടെ അതിനാൽ അതിൻറെ മൂല്യം ന്താണ് അതിനാൽ എനിക്ക് പറയാൻ കഴിയും 1 by 4 pi സ്ക്വെർ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ചതുര മൈനസ് അപ്പേർച്ചറിൽ ഞാൻ ft e നെ പവർ മൈനസ് j kz 0 e പവർ മൈനസ് j kx x മൈനസ് j ky y d kx d ky നിങ്ങൾ പറയുന്നു ഇത് ഞങ്ങളുടെ പരിഹാരമായിരുന്നു ഞാൻ z ഇട്ടത് 0 ന് തുല്യമാണ് മാത്രമല്ല മാറ്റം അപ്പോൾ എന്താണ് ft ft എന്നത് f അല്ലെങ്കിൽ വേവ്ഗൈഡിൻറെ x y തലം ഘടകമാണ് ഞങ്ങൾ അതിനെ തിരശ്ചീന ഘടകം എന്ന് വിളിക്കും അടിസ്ഥാനപരമായി ഇത് ഒന്നുമല്ല f ൻറെ തിരശ്ചീന ഘടകം ഇപ്പോൾ ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാണുക എന്നത് വ്യക്തമായും 2 ഡി ഫോറിയർ ട്രാൻസ്ഫോoമാണ് അതിനാൽ ഫ്യൂറിയറിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ അറിവിൽ നിന്ന് എനിക്ക് ഇപ്പോൾ ft കണ്ടെത്താനാകും ft എന്താണ് ft എന്നത് Ea e പവർ plus j kx x plus j ky y dxdy എനിക്കറിയാം ഈ അപ്പർച്ചർ ഫീൽഡ് നിലനിൽക്കുന്നത് അപ്പർച്ചർ സാധാരണയായി നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയും എന്നാൽ ഇതാണ് കൃത്യമായ പദപ്രയോഗം ഇവിടെ നിന്ന് എനിക്കും കഴിയും ഇത് Ea e പവർ പ്ലസ് j kx x പ്ലസ് j ky y dxdy ആണെന്ന് അങ്ങനെ ഞാൻ ft കണ്ടെത്താം ഇപ്പോൾ ft അറിയില്ല പക്ഷേ ഞാൻ പറയും ft ഞാൻ ഇതിനകം തെളിയിച്ചിട്ടുണ്ട് അതിനാൽ f എന്താണെന്ന് ഞാൻ എഴുതാം ft ut plus fz z K dot f 0 ന് തുല്യമാണെന്ന് ഇതിനകം ഞങ്ങൾ കണ്ടെത്തി അതായത് നിങ്ങൾക്ക് ഇത് kx fx പ്ലസ് ky fy പ്ലസ് kz fz 0 ന് തുല്യമായി എഴുതാം അതിനാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് fz എന്താണെന്ന് എഴുതാം fz ഒന്നുമല്ല പക്ഷേ മൈനസ് kx fx മൈനസ് ky fy kz ന് തുല്യമാണ് minus kx fx minus ky fy by kz എന്താണെന്ന് ഞങ്ങൾ ഇതിനകം കണ്ടു k0 സ്ക്വയർ മൈനസ് k0 സ്ക്വയർ മൈനസ് kx സ്ക്വയർ തുല്യമായ അതിനാൽ fz അറിയപ്പെടുന്നതായി നിങ്ങൾ കാണുന്നു കാരണം ഞങ്ങൾക്ക് fx അറിയാം fy നമുക്ക് അറിയാം ft അതിനർത്ഥം നമുക്ക് ഇപ്പോൾ fx fy അറിയാം നമുക്ക് fz കണ്ടെത്താം അതിനാൽ എഫ് അതിനാൽ ഇപ്പോൾ എന്താണ് ഫീൽഡ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഫീൽഡ് എവിടെയും E ആണെന്ന് ഞങ്ങൾ പറയും 1 by 4 പൈ സ്ക്വയർ തുല്യമാണ് അതിനാൽ ഇതാണ് പരിഹാരം അതിനാൽ എനിക്ക് അപ്പർച്ചർ ഫീൽഡ് അറിയാമെങ്കിൽ എനിക്ക് എഫ് കണ്ടെത്താൻ കഴിയും എന്നിട്ട് എനിക്ക് എല്ലായിടത്തും വികിരണ ഫീൽഡ് കണ്ടെത്താൻ കഴിയും ഇപ്പോൾ വയർ പോലെ തന്നെ ചോദ്യം ആന്റിനകളും എനിക്ക് ഈ അവിഭാജ്യത്തെ വിലയിരുത്താൻ കഴിയുമോ ഈ സമഗ്രത വിലയിരുത്താൻ വളരെ പ്രയാസമാണ് പൊതുവായത് കാരണം ഈ k dot r ഇത് വളരെ വേഗത്തിൽ വ്യത്യാസപ്പെടുന്ന ഒരു ഇൻസുലേറ്റിംഗ് ഫംഗ്ഷനാണ് അതിനാൽ പൊതുവേ ഇത് വിലയിരുത്തുന്നത് എളുപ്പമല്ല പക്ഷേ എല്ലായിടത്തും വൈദ്യുത മണ്ഡലം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല വിദൂര മേഖലയിലും വിദൂര മേഖലയിലുമുള്ള വൈദ്യുത മണ്ഡലം എന്താണെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനർത്ഥം r എന്നത് ലാംഡയേക്കാൾ വളരെ വലുതായിരിക്കുമ്പോൾ അതിനർത്ഥം k0 r വലുതാണ് യഥാർത്ഥത്തിൽ ഒരു രീതി ഉണ്ട് അതിനെ സ്റ്റേഷണറി ഫേസ് രീതി എന്ന് വിളിക്കുന്നു യഥാർത്ഥത്തിൽ ആ രീതിയിൽ എന്താണ് നിങ്ങൾക്ക് ഇൻസുലേറ്റിംഗ് ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ അത് പൊതുവായി കാണാനാകും ഈ കമ്പനത്തിൻറെ പ്രഭാവം റദ്ദാക്കുന്നു പക്ഷേ നിശ്ചല പോയിൻറുകൾക്ക് സമീപം സ്റ്റേഷണറി പോയിൻറുകൾ എന്നതിനർത്ഥം എവിടെയാണ് അത് ഒരു മാക്സിമയായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നിശ്ചലമായി ചുരുങ്ങുന്നു പോയിൻറുകൾ അവിടെ അത് കമ്പനം ചെയ്യുന്ന കാര്യമല്ല അതിനാൽ നിങ്ങൾ സമഗ്രതയെ വിലയിരുത്തുന്നുവെന്ന് പറയുന്നത് ആ നിശ്ചല പോയിൻറുകൾ സാധാരണയായി അത് ഇന്റഗ്രലിൻറെ അസിംപ്റ്റോട്ടിക് മൂല്യം ആയിരിക്കും അതിനാൽ വളരെ വലിയതോ വിദൂരസ്ഥലങ്ങളിലോ ഫീൽഡ് നൽകിയിട്ടുണ്ടെന്ന് ആളുകൾ കണ്ടെത്തി എന്ന് പ്രയോഗിക്കുന്നതിലൂടെ ഇത് യഥാർത്ഥത്തിൽ ക്ലാസുകൾ സ്റ്റേഷണറി ഫേസ് രീതി എവിടെയാണെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നു എന്നാൽ ഇവിടെ നിങ്ങളിൽ ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം ഞാൻ പറയും ഇത് എങ്ങനെ വിലയിരുത്താം അല്ലെങ്കിൽ ഇവ പ്രത്യേകിച്ചും പുസ്തകങ്ങളിൽ ലഭ്യമാണ് എന്ന കുറിപ്പുകൾ പങ്കിടുക ആർ കോളിൻസ് പുസ്തകം അത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചിരിക്കുന്നു അതിനാൽ ഇത് ആത്യന്തികമായി ഉപയോഗപ്രദമാണ് ആന്റിനയുടെ വിദൂര ഫീൽഡ് എക്സ്പ്രഷൻ നൽകിയിരിക്കുന്നത് ഈ എഫ് അനുസരിച്ച് നിങ്ങൾ കാണുന്നു അതിനാൽ വിദൂര ഫീൽഡ് അപ്പർച്ചർ ഫീൽഡിൻറെ ഫൂറിയർ ട്രാൻസ്ഫോo മായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഈ ft വിലയിരുത്തലിൽ x y എന്നിവയ്ക്ക് മുകളിലുള്ള ഇന്റഗ്രലുകൾ എല്ലാ ഭാഗങ്ങളിലും ഏറ്റെടുക്കുന്നു z എന്നത് 0 തുല്യമാണ് അതിൽ Sa ഒരു ഓപ്പണിംഗ് കട്ട് ആണെങ്കിൽ ടാൻജൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ 0 ആയിരിക്കും അതിനാൽ അപ്പർച്ചറിനായി ഇത് കാണുകയും ചെയ്തു വലിയൊരു തരംഗദൈർഘ്യത്തിൽ ഏത് പ്രായോഗിക ആന്റിന അപ്പർച്ചർ ആന്റിന ഗണ്യമായ വൈദ്യുത അളവ് ആയിരിക്കണം അതിനാൽ അവിടെ അത് കണ്ടു അതായത് മുന്നോട്ടുള്ള ദിശയിൽ ft വളരെ ഉയർന്നതാണ് അതായത് z അക്ഷത്തിൽ നിങ്ങൾ ഈ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഈ z അക്ഷത്തിൽ ftവളരെ ഉയർന്നതാണ് നിങ്ങൾക്കറിയാം ആ സമവാക്യം fx kx fx ആയതിനാൽ ഈ kx fx ft വളരെ ഉയർന്നതും ആയതിനാൽ fz വളരെ ചെറുതാണ് അതിനാൽ ഞങ്ങൾക്ക് താൽപ്പര്യമുള്ള ഈ സോണുകളിൽ വിദൂര മേഖലയിലും രണ്ടിലും പൊതുവെ ആ മേഖലയിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും കോസ് തീറ്റ 1 ആയിത്തീരുന്നു കാരണം തീറ്റ 0 ആണ് അതിനാൽ ഇവിടെ നിങ്ങൾ എക്സ്പ്രഷൻ കാണുന്നു ഇത് 1 ഉം ft വലുതും fz ഉം അതുകൊണ്ടാണ് വളരെ ചെറുത് അതിനാൽ വികിരണ ഫീൽഡ് ഈ പ്രദേശത്ത് ഏതാണ്ട് ft വരെ നൽകാം അതിനർത്ഥം മിക്കതിലും അപ്പേർച്ചറിലേക്ക് ഞങ്ങൾ ഇരുവശവും നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ താൽപ്പര്യമേഖല ഈ എഫ് നമുക്ക് ft ആയി മാറ്റിസ്ഥാപിക്കാം അതിനാൽ ഞാൻ എഴുതുന്നു പൊതുവായി നിങ്ങൾ കാണുന്നതുപോലെ എഫ് എഴുതാം ax fx പ്ലസ് ay fy മൈനസ് az fx kx പ്ലസ് fy ky by kz fz എങ്ങനെ വരുന്നുവെന്ന് ഞാൻ ഇതിനകം കാണിച്ചു അതിനാൽ ഞാൻ ഇതിൻറെ മൂല്യം ഇടുന്നു അതിനാൽ നിങ്ങൾക്ക് ഈ മൂല്യങ്ങളെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ സാധാരണയായി നിരീക്ഷണത്തിൽ സോൺ ഗോളീയ കോർഡിനേറ്റുകളുടെ അടിസ്ഥാനത്തിൽ വേണം അതിനാൽ നിങ്ങളുടെ ജോലി ഇപ്പോൾ ഈ ax ay az വെക്റ്റർ എന്നിവ ഗോളീയ കോർഡിനേറ്റുകളായി പരിവർത്തനം ചെയ്യുക അതായത് ചതുരാകൃതിയെ ഗോളാകൃതി ആക്കി പരിവർത്തനം ചെയ്യുക അതിനാൽ ഇതിന്റെ സഹായത്തോടെ വിദൂര ഫീൽഡ് j k0 എന്ന് എഴുതാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങളുടെ പതിവ് രീതിയിൽ എഴുതാൻ കഴിയും എന്താണ് Efar വ്യക്തമായും ഇവയെല്ലാം വിദൂര മേഖലയാണ് അതിനാൽ എന്താണ് E പിന്നീടുള്ള റഫറൻസിനായി ഞാൻ ഇത് എഴുതുന്നു വളരെ പ്രധാനമാണ് നമുക്ക് E നോക്കാം വിദൂരസ്ഥലത്ത് എത്തി എനിക്ക് ഇതിൽ നിന്ന് എളുപ്പത്തിൽ H ലഭിക്കും അതിനാൽ എനിക്ക് ഇത് H ഉണ്ടെന്ന് ഇവിടെ നിങ്ങൾ കാണുന്നു ഈ ഘടകങ്ങൾ മറ്റൊരു പോയിന്റ് ഞാൻ ഇവിടെ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നമുക്ക് ഈ k dot f 0 തുല്യമാണ് അതിനാൽ പ്രചാരണ വെക്റ്റർ k യുടെ ദിശയിൽ f ന് ഒരു ഘടകവുമില്ലെന്ന് എനിക്ക് പറയാൻ കഴിയും അതിനാൽ വൈദ്യുത മണ്ഡലം f മായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നാം കണ്ടു അതിനാൽ എനിക്ക് അത് പറയാൻ കഴിയുമോ വൈദ്യുത മണ്ഡലത്തിന് പ്രചാരണത്തിൻറെ ദിശയിൽ ഒരു വെക്റ്റർ ഘടകവുമില്ല അർത്ഥം എന്താണ് അതായത് വികിരണ മേഖലയിൽ ഫീൽഡുകൾ TEM തരംഗങ്ങളാണ് അതിനാൽ അടിസ്ഥാനപരമായി വിദൂര മേഖലയിൽ നമുക്ക് TEM തരംഗങ്ങളുടെ സൂപ്പർപോസിഷൻ ഉണ്ട് അതിനാൽ ഒരു അപ്പർച്ചറിൽ നിന്ന് ഫീൽഡ് അടിസ്ഥാനപരമായി വികിരണം ചെയ്യുമ്പോൾ നമുക്ക് വിദൂര ഫീൽഡിൽ സൂപ്പർപോസിഷൻ ലഭിക്കും സ്പേഷ്യൽ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വിവിധ TEM തരംഗങ്ങൾ എന്താണെന്ന് കാണിക്കുന്നു അതിനാൽ ഇത് വിശകലന ഭാഗം അവസാനിപ്പിക്കുന്നു അതിനാൽ എഴുതിയത് ഫൂറിയർ ട്രാൻസ്ഫോo ചെയ്യുക അപ്പേർച്ചർ ഫീൽഡ് എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ വികിരണ ഫീൽഡ് കണ്ടെത്തുക അതിന്റെ ഓരോ ആപ്ലിക്കേഷനും ഞങ്ങൾ കാണും ആദ്യ ആപ്ലിക്കേഷൻ ഓപ്പൺ എൻഡ് വേവ്ഗൈഡ് ആയിരിക്കും ഇത് ഒരു തുറന്ന ചതുരാകൃതിയിലുള്ള വേവ്ഗൈഡ് കാണിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ തരംഗമാണ് ഈ പുറകുവശത്ത് ഇത് പെട്ടെന്ന് ഒരു തരംഗദൈർഘ്യമായിരുന്നു ഇതിന് ശേഷം z 0 ശേഷം ഒന്നുമില്ല അതിനാൽ അവിടെ TE10 മോഡ് ആയിരുന്നു ആധിപത്യ മോഡ് പ്രചരിപ്പിക്കുകയും അളവുകൾ കാണുകയും ചെയ്യുന്നു അതിനാൽ ഇലക്ട്രിക് ഫീൽഡ് y സംവിധാനം ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന് y ദിശയിൽ വ്യത്യാസമില്ല ഇലക്ട്രിക് ഫീൽഡിന് എക്സ് ദിശയിൽ വ്യത്യാസമുണ്ട് സാധാരണഗതിയിൽ വ്യതിയാനം സിനുസോയ്ഡൽ ആണ് തരംഗദൈർഘ്യത്തിന്റെ വിശാലമായ അളവാണ് വ്യതിയാനം b എന്നത് ഇടുങ്ങിയ അളവാണ് അപ്പേർച്ചർ z ൽ 0 തലം തുല്യമാണ് അതിനാൽ ഫീൽഡുകളുടെ തിരശ്ചീന ഘടകം എനിക്ക് Ey എന്ന് എഴുതാൻ കഴിയും നിങ്ങളുടെ തരംഗദൈർഘ്യ പരിജ്ഞാനത്തിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും ഇത് അറിയാം എന്റെ കോർഡിനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എഴുതാൻ കഴിയും കോർഡിനേറ്റ് ഗൈഡിന്റെ കേന്ദ്രമാണ് അതിനാൽ ഫീൽഡ് കോസ് പൈ x by a e പവർ j ബീറ്റ 0 z Hx ആയിരിക്കും മൈനസ് E0 Yw cos pi x by a e പവർ മൈനസ് jബീറ്റ TE10 z0 ഞാൻ അതിനെ യഥാർത്ഥത്തിൽ a എന്ന് വിളിക്കരുത് ഇത് ഞാൻ പിന്നീട് ചെയ്യും അതിനാൽ എന്താണ് ബീറ്റ പ്രചാരണ സ്ഥിരത k0 സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ by ഒരു സ്ക്വയർ മുഴുവൻ പവർ ½ ചില സമയങ്ങളിൽ ബീറ്റ TE10 കൂടിയാണ് ഇതാണ് ഈ മോഡിനായുള്ള തരംഗം അഡ്മിറ്റൻസ് ബീറ്റ TE10 Y0 by k0 ആണ് അതിനാൽ z 0 ന് തുല്യമാണെങ്കിൽ ഫീൽഡുകൾ എന്താണ് കാരണം അവ എന്റെ അപ്പർച്ചർ ഫീൽഡുകളാണ് അതിനാൽ z 0 ന് തുല്യമാണെങ്കിൽ ഫീൽഡുകൾ Ey E0 cos pi x by a Hx മൈനസ് എന്നിവയാണ് ഇപ്പോൾ ഈ അപ്പർച്ചറിൽ പ്രബലമായ TE10 മോഡിനൊപ്പം തരംഗം വരുന്നുവെന്ന് കരുതുക അതിനാൽ അത് ഒരു തരംഗം ഇംപെഡൻസ് കാണുന്നു 1 by yw അതിനാൽ ആ 1 by തരംഗ അഡ്മിറ്റൻസ് പെട്ടെന്ന് അത് 377 ഓം ആണ് ഇംപെഡൻസ് ഉടനടി ഒരു പ്രതിഫലനം ഉണ്ടാകും പ്രതിഫലിക്കും TE10 മോഡ് തരംഗവും ഇത് കാരണം കുറച്ച് ഉയർന്ന ക്രമ മോഡുകൾ ജനറേറ്റുചെയ്യും അതിന്റെ ചെറിയ വിസ്തൃതി തുറന്ന അറ്റത്ത് വ്യക്തമാകും അതിനാൽ വിശകലനത്തിലേക്ക് കൊണ്ടുപോകാം പക്ഷേ ആദ്യത്തെ കട്ട് വിശകലനം എന്ന നിലയിൽ നമുക്ക് ഇവ രണ്ടും അവഗണിക്കാം ഇവ അവഗണിക്കുകയാണെങ്കിൽ അപ്പേർച്ചർ ഫീൽഡും നൽകുന്നത് പ്രബലമായ TE10 ഫീൽഡ് യഥാർത്ഥത്തിൽ അപ്പർച്ചർ ഫീൽഡ് പ്രതിഫലിപ്പിച്ചതിന് തുല്യമാകുമെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവ ഫീൽഡും പ്രതിഫലിച്ച ഫീൽഡും ഉയർന്ന ഓർഡർ മോഡുകളും എന്താണ് പക്ഷെ ഞാൻ ആദ്യo പ്രതിഫലിച്ച മറ്റൊരു ഭാഗത്തെ അവഗണിക്കാൻ കഴിയും അതിനാൽ അപ്പർച്ചർ ഫീൽഡ് പ്രബലമായ മോഡ് ഫീൽഡിന് തുല്യമാണെന്ന് വികിരണത്തിന്റെ പ്രധാന ഭാഗത്ത് വ്യത്യാസമില്ല പക്ഷേ വശങ്ങളിലെ ഭാഗങ്ങളിൽ ചില പൊരുത്തക്കേടുകളാണ് അതിനാൽ ഇത് z 0 ന് തുല്യമാണ് ഇതാണ് ഫീൽഡ് അതിനാൽ ഇത് എന്റെ Ea ആണെന്ന് ഞാൻ പറയുന്നു അതിനാൽ Ex 0 ആണെന്നാണ് അതിനാൽ fx ഉം 0 ആയിരിക്കും എന്ന് എനിക്ക് പറയാനാകുമോ fx ആണ് ഫോറിയർ ട്രാൻസ്ഫോo അതിനാൽ fy മാത്രമേയുള്ളൂ എന്താണ് fy E0 മൈനസ് ബി by 2 പ്ലസ് ബി by 2 മൈനസ് a by 2 പ്ലസ് a by 2 cos pi x by a e പവർ j kx plus j ky y dxdy 2 pi a b E0 sinc ky b by 2 by cos kx a by 2 by pi സ്ക്വയർ മൈനസ് kx ഒരു മുഴുവൻ സ്ക്വയർ ഇവിടെ kx എന്നത് k0 സൈൻ തീറ്റ കോസ് phi ky ആണ് k0സൈൻ തീറ്റ സൈൻ ഫി അതിനാൽ pi pi2 by തലം അതിനർത്ഥം ഡയഗ്രം y z തലം നോക്കുകയാണെങ്കിൽ അതിനർത്ഥം അതായത് y z തലത്തിൽ വികിരണ ഫീൽഡ് E നൽകുന്നു kx എന്തായിരിക്കും kx 0 ഇവിടെ pi യ്ക്ക് സമo pi2 ഉം ky k0 സൈൻ തീറ്റയും സൈൻ phi 1 ന് തുല്യവുമാണ് അതിനാൽ E ആനുപാതികമായി fy sin phi എന്നതിന് തുല്യവുമാണ് 2 pi ab E0 sinc k0 d by 2 സൈൻ തീറ്റ 1 by pi square തുല്യമാണ് pi ab E0 sinc v ഇവിടെ v എന്നത് k0 b ന് 2 സൈൻ തീറ്റയ്ക്ക് തുല്യമാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നു ഈ ഇടത് ഡയഗ്രം ഇതാണ് റേഡിയേഷൻ പാറ്റേൺ E v യുടെ ഒരു ഫംഗ്ഷനായി കാണും അതിനാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് കാണുന്നത് എന്നതിനാലാണ് y ദിശയിൽ രസകരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ കാണും അതിനർത്ഥം y z തലം അവയ്ക്കൊപ്പം y ദിശയിലുമാണ് അപ്പർച്ചർ പ്രകാശം ഏകതാനമായിരിക്കുന്നത് അതിനാൽ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോർം എന്തായിരിക്കും റേഡിയേഷൻ പാറ്റേൺ സിങ്ക് ഫംഗ്ഷനാണ് അത് വന്നതും pi 0 തലം തുല്യവുമാണ് അതിനർത്ഥം നിങ്ങൾക്ക് kxk0 എന്ന് എഴുതാൻ കഴിയുന്ന xz തലം സൈൻ തീറ്റ ky എന്നത് 0 ആണ് ആണ് കാരണം കോസ് phi1 ആണ് അതിനാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പരിഹാരങ്ങളും യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്താം ഞാൻ എല്ലാo ഇവിടെ ഇടുന്നു ഇവ എൻറെ പരിഹാരങ്ങൾ ഇവിടെ കാണുന്നു അതിനാൽ ഇവിടെ എനിക്ക് E മൂല്യം 2 pi a b E0 കോസ് u by pi സ്ക്വയർ മൈനസ് 2 u മുഴുവൻ സ്ക്വയർ കോസ് തീറ്റയായി ലഭിക്കും ഇവിടെ u k0 a by 2 സൈൻ തീറ്റ അതിനാൽ അത് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നു E by കോസ് തീറ്റ ഇത് കാണിക്കുന്നു ഇവിടെ ഇത് ഏകീകൃത പ്രകാശമായിരുന്നില്ല അതിനാൽ ഇത് ശുദ്ധമായ സിങ്ക് പ്രവർത്തനമല്ല മറിച്ച് ഫോറിയർ ട്രാൻസ്ഫോർം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എക്സ് ബാൻഡ് ഡബ്ല്യുആർ 90 വേവ് ഗൈഡുണ്ടെങ്കിൽ അത് എക്സ് ബാൻഡ് വേവ്ഗൈഡ് ആണ് ഇത് അളവുകളാണ് 0 09 ഇഞ്ച് 2 286 സെന്റിമീറ്ററാണെന്നും ബി 0 4 ഇഞ്ച് 1 016 സെന്റിമീറ്ററാണെന്നും ഞങ്ങൾക്കറിയാം ലാംഡ 3 സെന്റിമീറ്റർ അതായത് 10 GHz ഇപ്പോൾ ബീംവിഡ്ത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇ പ്ലെയിനിൽ ബീംവിഡ്ത്ത് എന്താണ് ഇ പ്ലെയിൻ എന്നാൽ phi pi2 ന് തുല്യമാണ് ഇ തലം ഇവിടെ ഇ വെക്റ്റർ പ്രചാരണ ദിശയിൽ സ്ഥിതിചെയ്യുന്നു അതിനാൽ ആദ്യത്തെ ശൂന്യത സംഭവിക്കുന്നത് v തുല്യo pi ആണ്ഈ മൂല്യം k0 b by 2 സൈൻ തീറ്റ pi ന് തുല്യമാണ് അതിനാൽ ഈ മൂല്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെങ്കിൽ സൈൻ തീറ്റ മൂല്യം 3 എന്നതിലേക്ക് വരും അതിൻറെ അർത്ഥമെന്താണ് തീറ്റ അദൃശ്യ മേഖലയിലാണെന്ന് അതിനാൽ സൈൻ തീറ്റ 1 നെക്കാൾ വലുതാണ് അതിനർത്ഥം തീറ്റ തലത്തിൽ ഞങ്ങൾക്ക് ഒരു ശൂന്യതയില്ല നിങ്ങൾ അതിനപ്പുറം പോകേണ്ടിവരും പക്ഷേ അത് സാധ്യമല്ല അതിനാൽ ശൂന്യമല്ലെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും അതിനാൽ ഇത് വളരെ വലുതാണ് ദൃശ്യമാകുന്ന സ്ഥലത്ത് ബീംവിഡ്ത്ത് ഉണ്ടാകാൻ കഴിയാത്തത്ര ചെറുതാണെങ്കിൽ ഇത് ഇവിടെ നിർവചിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ എച്ച് പ്ലെയിനിൽ അർത്ഥമാക്കുന്നത് മറ്റ് തലം ഫൈ 0 ന് തുല്യമാണെന്നും k0 a by 2 സൈൻ തീറ്റ 3 pi by 2 ന് തുല്യമാണ് pi by 2 ൽ ഇത് ശ്രദ്ധിക്കുക ഇത് സംഭവിക്കുന്നില്ല കാരണം pi by 2 കൊണ്ട് നമുക്ക് fy ലഭിക്കുന്നത് 0 by 0 ന് തുല്യമാണ് അതിനാൽ ഇവിടെ നിങ്ങൾ സൈൻ തീറ്റയ്ക്കായി പരിഹരിച്ചാൽ ഈ സൈൻ തീറ്റയും 1 നെക്കാൾ വലുതാണ് അതിനാൽ ഒരു ദിശാസൂചന സ്വഭാവത്തിന് വളരെ പരന്ന ബീം അതിനാൽ ഡയറക്റ്റീവ് കണക്കുകൂട്ടലിനായി യഥാർത്ഥ സംയോജനം ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ വികിരണം ചെയ്ത മേഖലകളെ ഞങ്ങൾക്കറിയാം അതിനാൽ നമുക്കറിയാവുന്ന മൊത്തം വൈദ്യുതി വികിരണം അതിനാൽ Pr നമുക്ക് പകുതി മൈനസ് a by 2 മുതൽ a by 2 വരെ 2 മൈനസ് b by 2 മുതൽ b by 2 വരെയും yw E0 സ്ക്വയർ കോസ് സ്ക്വയർ പൈ x a dydx കണക്കാക്കാം ഇത് എനിക്ക് 4 yw E0 സ്ക്വയറിനാൽ നൽകും കൂടാതെ ഇത് ഇവിടെ നിന്നുള്ള ഈ രണ്ട് തത്വ പാറ്റേണുകൾ z അക്ഷത്തിൽ സംഭവിക്കുന്ന പരമാവധി വികിരണം എവിടെയാണെന്ന് നമുക്കറിയാം അതിനാൽ നമുക്ക് z അക്ഷത്തിൽ വികിരണ തീവ്രത കണ്ടെത്താൻ കഴിയും അതിനർത്ഥം തീറ്റയി ഒമേഗയുടെ 0 ന് തുല്യം ആകുമ്പോൾ അത് ചതുരശ്ര പകുതി y0 E ചതുരവും E ചതുരവും ആയിരിക്കും നിങ്ങൾ വിലയിരുത്തിയാൽ ഇത് സംഭവിക്കും അതിനാൽ ഡയറക്റ്റിവിറ്റി D 4 pi dP by d ഒമേഗാ തീറ്റ Pr ന് 0 ന് തുല്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കും ഈ കാര്യങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾ ഇടേണ്ടിവരും ഞാൻ ഇതിനകം പറഞ്ഞ ഈ തരംഗ ഇംപാഡൻസ് അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 64 എബി by ബീറ്റാ TE 10 ലാംഡ 0 ക്യൂബ പിന്നെ ബീറ്റാTE10 പൈ by 4 ഉം ലാംഡ 0 ബൈ സ്ക്വയർ മൈനസ് 1 ഉം ഒരു സ്ക്വയർ മുഴുവനായും പവർ പകുതിയിലേക്ക് ലഭിക്കും വീണ്ടും ലാംഡ 0 3 സെന്റിമീറ്റർ WR90 വേവ്ഗൈഡ് ഒരു കാര്യം ഞങ്ങൾ ചെയ്താൽ ഈ മൂല്യങ്ങൾ 3 5 നൽകിയാൽ ഈ D ആയിത്തീരും അതിനാൽ ഓപ്പൺ എൻഡഡ് ഡയറക്റ്റിവിറ്റി എക്സ് ബാൻഡിലെ വേവ്ഗൈഡ് 3 5 ആണ് അതിനാൽ ഇത് തീർച്ചയായും ഒരു ദ്വിധ്രുവത്തേക്കാൾ മികച്ചതാണ് നിങ്ങൾ തീർച്ചയായും ഇത് ഒരു ദ്വിധ്രുവത്തേക്കാൾ മികച്ചതാണെന്ന് പറയുന്നു എന്നാൽ അപ്പർച്ചർ കാര്യത്തിൽ ഇത് വളരെ വലിയ കാര്യമാണ് 3 5 നല്ലതല്ല പക്ഷേ ഓപ്പൺ എൻഡ് വേവ്ഗൈഡ് വളരെ ജനപ്രിയമായ ആന്റിനയാണ് കാരണം ഇത് അറേയിൽ ഉപയോഗിക്കാൻ കഴിയും ഇത് വളരെ നല്ല ഘടകമാണ് എല്ലാ വയർ ആന്റിനകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് ഉയർന്ന പവർ നിലനിർത്താൻ കഴിയും അതിനാൽ വിവിധ റഡാർ ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾക്ക് ഓപ്പൺ എൻഡ് വേവ്ഗൈഡ് ഉണ്ട് അത് വളരെ നല്ല ഘടനയാണ് ഫീഡ് പെട്ടെന്ന് വരുന്നുവെന്ന് കണ്ടാൽ അത് ആന്റിനയായി മാറുന്നു അതിനാൽ ഒരു പ്രത്യേക ആന്റിനയും അവയെല്ലാം ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട് ഒപ്പം ഒരു പ്ലെയിനിൽ എല്ലാo ഇടുന്നു അതിനാൽ മുൻഭാഗം വളരെ പ്ലാനറാണ് അതുകൊണ്ടാണ് മിസൈലുകൾ മുതലായ മാർഗ്ഗനിർദ്ദേശ സംവിധാനങ്ങൾക്ക് റഡാർ മാർഗ്ഗനിർദ്ദേശ സംവിധാനങ്ങൾക്ക് മിസൈൽ മാർഗ്ഗനിർദ്ദേശ സംവിധാനം എന്നിവ ആവശ്യമാകുമ്പോൾ ഈ ഓപ്പൺ എൻഡ് വേവ്ഗൈഡ് ഇത് വളരെയധികം ഉപയോഗിക്കുന്നു ഇതിൻറെ ആന്റിന പ്രോപ്പർട്ടികൾ വളരെ പ്രസിദ്ധമാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ഇത് ഉപസംഹരിക്കുന്നു എന്നാൽ മറ്റ് കാര്യങ്ങളായ ഹോൺ ആന്റിനകളുടെ കാര്യത്തിലും ഞങ്ങൾ ഇത് ചെയ്യും കാരണം ഇപ്പോൾ അപ്പേർച്ചറിനെ ഫ്ലെർ ചെയ്യുകയാണെങ്കിൽ ഒരു ഹോൺ ആയി മാറുന്ന എൻറെ പ്രചോദനം ഈ ഫ്ലെർ നിന്നും എനിക്ക് മികച്ച ഡയറക്റ്റിവിറ്റി ലഭിക്കണം അത് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കും അതിനാൽ അടുത്ത പ്രഭാഷണങ്ങളിൽ നമ്മൾ കാണും